അടുത്തത് ടു ബ്രാഞ്ച് സർക്യൂട്ടായ പാരലൽ റെസൊണൻസ് ആണ് നമ്മൾ ഒരു ലളിതമായ ടു ബ്രാഞ്ച് സർക്യൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ഇൻഡക്ടീവ് ബ്രാഞ്ച് ആയ RL L ആണ് ഇത് ഒരു കപ്പാസിറ്റീവ് ബ്രാഞ്ചും ആണ് അപ്പോൾ ഇത് RLLω യും ഇത് RC XC യും ആണ് അപ്പോൾ ഈ സർക്യൂട്ടിന്റെ പാരലൽ റെസൊണൻസാണ് കാണേണ്ടത് Y ആണ് അഡ്മിറ്റൻസ് അതിനാൽ Y YL YC അതിനാൽ YL ആണ് ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ അഡ്മിറ്റൻസ് അപ്പോൾ Y 1RL j XL 1RC j XC ഇനി ഈ ന്യുമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും RL j XL കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഈ പദം RL j XL RL XL × അതിനാൽ ഇവിടെ ഇത് RL 2 j 2 XL2 എന്നാവും ഇവിടെ j 2 1 ആണ് അപ്പോൾ ഇത് RL2 XL2 എന്നാവും ഇനി ഇത് വേർതിരിച്ച് എഴുതുകയാണെങ്കിൽ ഇത് RL RL XL2 എന്നും ഇത് നമ്മൾ പൊതുവായിട്ടെടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ XLRL 2 XL 2 എന്നത് ആണ് സാങ്കൽപ്പിക വശം അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ രണ്ട് വശങ്ങളുണ്ട് ഇത് രണ്ടും യഥാർത്ഥ വശങ്ങളാണ് അപ്പോൾ ഇതിലെ യഥാർത്ഥ വശം RLRL2 XL 2 ഉം സാങ്കൽപ്പിക വശം XLRL XL2 അപ്പോൾ ഇത് XLRL XL2 സമാനമായി RC j XC ൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും RC j XC കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അതിനാൽ യഥാർത്ഥ വശം ഇതും സാങ്കൽപ്പിക വശം ഇതുമാണ് അതിനർത്ഥം കോംപ്ലക്സ് അഡ്മിറ്റൻസ് യഥാർത്ഥ സംഖ്യ ആവുമ്പോൾ സർക്യൂട്ട് റെസൊണനസിലായിരിക്കും അതിനർത്ഥം ഈ സാങ്കൽപ്പിക ഭാഗത്തെ നമ്മൾ 0 ആക്കി വെക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഇത് XC RC2 XC 2 XL RL 2 XL 2 എന്നാവും ഇത് യഥാർത്ഥത്തിൽ ω ω0 ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസി ഇനി XL L ω Lω0 അത് പോലെ XC 1ω C 1ω0 c ഇനി XL L ω0 യും XC 1 ω0 C എന്നതും ഇതിലേക്ക് ചേർത്ത് ഇതിനെ ലഘൂകരിക്കുകയാണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കുക റെസൊണൻസ് ലഭിക്കുന്നതിന് സമവാക്യം ലെ അഞ്ച് അളവുകളിൽ ഓരോന്നും വേരിയബിൾ ആക്കാം ഇവിടെ 5 വേരിയബിളുകളുണ്ട് ഒന്ന് ω0 മറ്റൊന്ന് C യും മറ്റൊന്ന് RL ഉം മറ്റൊന്ന് RC യും അടുത്തത് L ഉം ആണ് അപ്പോൾ ഇതാണ് 5 വേരിയബിളുകൾ അപ്പോൾ സമവാക്യം ലെ 5 അളവുകളിലെ ഓരോന്നും നോക്കുകയാണെങ്കിൽ ഇതാണ് സമവാക്യം റെസൊണൻസ് ലഭിക്കുന്നതിന് ഇത് വേരിയബിൾ ആക്കാം ഇനി സമവാക്യം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ω0 1√ ഇത്രയെന്ന് കിട്ടും ഈ സമവാക്യം ൽ നിന്ന് ω0 കണ്ടെത്താം അപ്പോൾ നമുക്ക് ലഭിക്കുക ω0 1√LC √ RL 2 L C RC 2 L C സമവാക്യം യിൽ നിന്ന് നമുക്ക് ലഭിക്കുക ഈ പ്രയോഗമാണ് നിങ്ങളത് ചെയ്ത് നോക്കുക ഞാൻ ഇവിടെ അവസാന പ്രയോഗം നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ω0 1√LC √ RL 2 L C RC 2 L C ഇതിൽ സർക്യൂട്ട് ലൂപ്പായിരിക്കും സീരീസ് സർക്യൂട്ടിൽ ω0 1√ LC മാത്രമായിരിക്കും പക്ഷെ പാരലൽ സർക്യൂട്ടിൽ ഒരു ഘടകം അതിലേക്ക് ഗുണിക്കുന്നുണ്ട് ഇതാണ് ആ ഘടകം ഇനി റെസൊണൻസ് സംഭവിക്കുമ്പോൾ ഒരു വ്യവസ്ഥ എന്നത് സ്ക്വയർ റൂട്ടിന് താഴെയുള്ളത് പോസിറ്റീവായിരിക്കണം എന്നതിനാൽ RL2 L C 0 ആവണം എന്നതാണ് മറ്റൊരു കാര്യം RC 2 L C 0 ആവണം അപ്പോൾ ഇതാണ് റെസൊണൻസിനുള്ള ഒരു വ്യവസ്ഥ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മൂല്യം ലഭിക്കും കാരണം ഇത് പോസിറ്റീവായിരിക്കണം ഇത് പോസിറ്റീവായിരിക്കണം അല്ലെങ്കിൽ ഇത് നെഗറ്റീവായിരിക്കണം ഇതും നെഗറ്റീവായിരിക്കണം ഇതിൽ RL 2 L C 0 യും RC 2 L C 0 യും ആയിരിക്കണം ഇത് രണ്ടും നെഗറ്റീവാണെങ്കിൽ ഇത് പോസിറ്റീവാകും അപ്പോൾ നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ചില മൂല്യം ലഭിക്കും പക്ഷെ RL 2 RC 2 L C എന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് എല്ലാ ഫ്രീക്വൻസികളിലും റെസൊണേറ്റ് ചെയ്യും ടു ബ്രാഞ്ച് പാരലൽ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി ω0 എന്ന് തുടങ്ങുന്ന ഇതാണ് ഒരു വ്യവസ്ഥ ഈ ഘടകം ഗുണനം ചെയ്തിട്ടുണ്ട് റെസൊണന്സിന്റെ വ്യവസ്ഥ അനുസരിച്ച് RL 2 L C 0 യും RC 2 L C 0 ഇവ രണ്ടും പോസിറ്റീവായിരിക്കണം അതായത് RL 2 L C അത് പോലെ RC2 L C അല്ലെങ്കിൽ RL 2 L C 0 അതായത് RL 2 L C സമാനമായി RC 2 L C 0 അതായത് RC 2 L C അപ്പോൾ ഈ രീതിയിൽ റെസൊണൻസ് സംഭവിക്കും എന്നാൽ RL2 RC2 L C ആവുമ്പോൾ ഈ സർക്യൂട്ട് എല്ലാ ഫ്രീക്വൻസികളിലും റെസൊണന്റായിരിക്കും കാരണം ആ ഘടകം ഇവിടെ ഇല്ലാതെയായി പോകും ഇനി ചോദ്യമെന്തെന്നാൽ നമ്മൾ സമവാക്യം L നു വേണ്ടി സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ലഭിക്കും ഇതാണ് സമവാക്യം ഇതിനെ നമുക്ക് ZC 2 RC 2 XC 2 എന്നാക്കാം ഇതാണ് ZC 2 അത് പോലെ ZL 2 R 2 XL 2 എന്നും അപ്പോൾ സമവാക്യം ൽ നിന്ന് നമ്മൾ L സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഞാൻ ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട് L 12 C ZC2 ± √ ZC4 4 RL2 XC2 ഇതാണ് സമവാക്യം ഇവിടെ ZC 2 RC2 XC2 എന്നാണ് അതിനാൽ ZC4 RC2 XC22 ഇനി സമവാക്യം ഉപയോഗിച്ച് ഇത് ദയവായി സോൾവ് ചെയ്യുക അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുകയെന്നാൽ ഈ സമവാക്യം ൽ നിന്ന് റെസൊണന്സിന്റെ വ്യവസ്ഥ അനുസരിച്ച് ZC4 4 RL2 XC2 0 ആയിരിക്കണം കാരണം ഇത് സ്ക്വയർ റൂട്ടാണ് അത് പോസിറ്റീവായിരിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് റെസൊണൻസ് സംഭവിക്കുന്ന സർക്യൂട്ടിൽ L ന്റെ രണ്ട് മൂല്യങ്ങൾ ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം ZC4 4 RL2 XC2 0 ആണെങ്കിൽ L ന് ഒരു മൂല്യം മാത്രമേ ഉണ്ടാവുകയുള്ളു ഇനി ZC4 4 RL2 XC2 നെഗറ്റീവാണെങ്കിൽ അവിടെ റെസൊണൻസ് ഉണ്ടായിരിക്കുകയില്ല അതിനാൽ ZC4 4RL2XC2 ആയിരിക്കണം ഈ സ്ക്വയർ റൂട്ടിന് താഴെ ഉള്ളത് പോസിറ്റീവായിരിക്കണം അതിനാൽ സർക്യൂട്ട് റെസൊണന്റായ L ൻറെ രണ്ട് മൂല്യം നമുക്ക് ലഭിക്കുന്നതാണ് രണ്ട് മൂല്യങ്ങൾ കിട്ടാൻ കാരണം ഇവിടെ ഉം ഉം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ZC4 4 RL 2 XC 2 എന്നാകുമ്പോൾ ഈ സർക്യൂട്ട് L 12 C ZC2 എന്നതിൽ റെസൊണന്റാണ് അതായത് ZC4 4 RL2 XC2 എന്ന ഈ പദം പൂജ്യമായിരിക്കും അതിനർത്ഥം L 12 C ZC2 എന്നായിരിക്കും ഇത് അർത്ഥമാക്കുന്നത് ഈ സർക്യൂട്ട് L 12 C ZC2 എന്നതിൽ റെസൊണന്റാണ് എന്നതാണ് ഇനി ZC4 4 RL2 XL2 ആകുമ്പോൾ L ന്റെ ഒരു മൂല്യവും സർക്യൂട്ട് റെസൊണന്റ് ആക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് സ്ക്വയർ റൂട്ടിന് താഴെ താഴെ ഉള്ളത് നെഗറ്റീവാണെങ്കിൽ സർക്യൂട്ട് റെസൊണന്റ് ആക്കുന്ന L ന്റെ മൂല്യങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല ഇനി സമാനമായി സമവാക്യം ൽ നിന്ന് C സോൾവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്കിലും നിങ്ങളിത് സോൾവ് ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ സമവാക്യം ൽ നിന്ന് C ക്ക് വേണ്ടി നമുക്ക് മറ്റൊരു പ്രയോഗം ലഭിക്കുന്നതാണ് C 2L 1ZL2 ± √ZL4 4 RC2 XL2 ഈ സ്ക്വയർ റൂട്ട് പദം പോസിറ്റീവാണെങ്കിൽ സർക്യൂട്ട് റെസൊണന്റ് ആവുന്ന രീതിയിൽ ഇതിന് 2 മൂല്യങ്ങൾ ലഭിക്കും ഇനി ZL4 4 RC2 XL 2 0 ആണെങ്കിൽ സർക്യൂട്ട് റെസൊണന്റ് ആവുന്ന രീതിയിൽ C ക്ക് ഒരു മൂല്യം മാത്രമേ ഉണ്ടാവുകയുള്ളു അതായത് 2LZL2 ഇനി ഈ പദം നെഗറ്റീവാകുമ്പോൾ സർക്യൂട്ട് റെസൊണന്റ് ആക്കുന്ന C ന്റെ മൂല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതാണ് ആ വ്യവസ്ഥ അതിനാൽ നമ്മൾ സർക്യൂട്ട് റെസൊണന്റ് ആവുന്ന രീതിയിൽ C ക്ക് 2 മൂല്യങ്ങൾ കണ്ടെത്തി അത് പോലെ ZL4 4 RC2 XL2 ആവുമ്പോൾ സർക്യൂട്ട് C 2 LZL2 എന്നതിൽ റെസൊണന്റായിരിക്കും അപ്പോൾ ഇത് C ക്കും ഇത് L നും ആണ് ഇനി വീണ്ടും സമവാക്യം RL നു വേണ്ടി സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താണ് ചെയ്യുന്നതെന്നാൽ ഓരോ വേരിയബിളും മറ്റുള്ളവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതിനാൽ സമവാക്യം RL നു വേണ്ടി സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക RL √ω2 LC RC2 ω2 L2 LC എന്നായിരിക്കും ഇനി ω2 LC RC2 ω2 L2 LC 0 ആണെങ്കിൽ ഈ സർക്യൂട്ട് റെസൊണന്റ് ആയിരിക്കും ഇത് RL നാണ് സമാനമായി RC ക്ക് വേണ്ടി സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക RC √RL2ω2 LC 1 ω2 C 2 L C അപ്പോൾ സർക്യൂട്ട് റെസൊണന്റ് ആവണമെങ്കിൽ ഇത് 0 ആയിരിക്കണം അതിനാൽ LC RL RC എന്നിവയെല്ലാം ബാക്കിയുള്ള വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചു ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനെയാണ് പാരലൽ സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഇൻഡക്ടീവ് സർക്യൂട്ടിന്റെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെയും റെസൊണൻസ് ഇനി അടുത്തതായി നമ്മൾ നിർവചിക്കുന്ന പദം ക്വാളിറ്റി ഫാക്ടർ Q ആണ് അപ്പോൾ ഇവിടെ കൊയിലിന്റെയും കപ്പാസിറ്ററുകളുടെയും സർക്യൂട്ടിന്റെയും ക്വാളിറ്റി ഫാക്ടർ നിർവചിച്ചിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ Q 2 𝜋 പരമാവധി ശേഖരിച്ചിട്ടുള്ള എനർജി ഓരോ സൈക്കിളിലും കളഞ്ഞ എനർജി അപ്പോൾ ഇതിനെ കൊയിലിന്റെയും കപ്പാസിറ്ററുകളുടെയും സർക്യൂട്ടിന്റെയും ക്വാളിറ്റി ഫാക്ടർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ Q 2 𝜋 പരമാവധി ശേഖരിച്ചിട്ടുള്ള എനർജി ഓരോ സൈക്കിളിലും കളഞ്ഞ എനർജി ഇനി ഉദാഹരണത്തിന് ഒരു ലളിതമായ ഇൻഡക്റ്റീവ് സർക്യൂട്ട് നോക്കാം ഇത് റെസിസ്റ്റൻസ് R ആണ് ഇത് XL JL ω ഇത് I ലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് ഇത് ഫിഗർ 1 ആണ് ഇനി ഫിഗർ 2 ൽ ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ് ഇത് RC ആണ് I എന്നത് കറണ്ട് ആണ് ഇത് 1j ω C ആണ് 1j ω C എന്നാൽ j ω C ആണ് ഇത് XC യും ഇത് XL ഉം ആണ് XL JL ω എന്നതും XC jω C എന്നതുമാണ് അപ്പോൾ ഇതിനെ വേർ തിരിച്ചാണ് നമ്മൾ പരിഗണിക്കുന്നത് ഇനി ഫിഗർ 1 ലും ഫിഗർ 2 ലും ഓരോ സൈക്കിളിലും കളഞ്ഞ എനർജി ഇവിടെ നൽകിയിട്ടുള്ളത് റെസിസ്റ്റർ Imax √2 2 R ലെ ശരാശരി പവറും പിരിയഡ് T അല്ലെങ്കിൽ 1 f ഉം തമ്മിലുള്ള ഗുണനഫലം കൊണ്ടാണ് അപ്പോൾ ഇതാണ് Imax √2 അടിസ്ഥാനപരമായി Imax √2 I r m s മൂല്യം ആണ് അപ്പോൾ ഇത് I r m s2 R ഇതിനെയാണ് നമ്മൾ റെസിസ്റ്ററിലെ ശരാശരി പവർ എന്ന് പറയുന്നത് അതിനെ നമ്മൾ Imax √2 2 R എന്നാക്കി ചേർക്കുകയാണ് അപ്പോൾ ഇതാണ് ശരാശരി പവർ Imax √ 22 R ഇനി പെർ സൈക്കിൾ എന്നാൽ 1 f ആണ് അപ്പോൾ ഇതാണ് ഇനി ഫിഗർ 1 ലെയും ഫിഗർ 2 ലെയും സർക്യൂട്ടുകളിൽ ഓരോ സൈക്കിളിലും കളഞ്ഞ എനർജി ഫിഗർ 1 ൽ ഇൻഡക്ടീവ് സർക്യൂട്ടും ഫിഗർ 2 ൽ കപ്പാസിറ്റീവ് സർക്യൂട്ടുമാണ് ഇനി ഫിഗർ 1 ലെ RL സീരീസ് സർക്യൂട്ടിൽ പരമാവധി ശേഖരിച്ച എനർജി 12 L Imax2 ആണ് അത് നമ്മൾ പഠിച്ചതാണ് അതിനാൽ നമ്മൾ Q 2 𝜋 പരമാവധി ശേഖരിച്ചിട്ടുള്ള എനർജി ഓരോ സൈക്കിളിലും കളഞ്ഞ എനർജി എന്ന് മുമ്പ് കണ്ടതാണ് അപ്പോൾ ഇവിടെ അത് 2 𝜋 12 L Imax2 Imax2 2 R 1 f എന്നായിരിക്കും കാരണം ഇതാണ് ഓരോ സൈക്കിളിലും കളഞ്ഞ എനർജി അപ്പോൾ f എന്നതാണ് ഫ്രീക്വൻസി അത് 50 ഹെർട്സാണ് അതിനർത്ഥം ഓരോ സെക്കൻഡിലും 50 സൈക്കിളുകളാണ് നമ്മൾ f 50 Hz എന്ന് പറയുമ്പോഴെല്ലാം അത് അർത്ഥമാക്കുന്നത് ഓരോ സെക്കൻഡിലും 50 സൈക്കിളുകൾ എന്നതാണ് അപ്പോൾ ഇത് പെർ സൈക്കിൾ എന്നായത് കൊണ്ട് f കൊണ്ട് ഹരിക്കുകയാണ് ഇത് ലഘൂകരിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് Q 2 𝜋 f LR L ω R എന്നതാണ് അപ്പോൾ ഇതാണ് ഇൻഡക്ടീവ് സർക്യൂട്ടിന്റെ Q സമാനമായി ഫിഗർ 2 ലെ RC സീരീസ് സർക്യൂട്ടിൽ പരമാവധി ശേഖരിച്ച എനർജി 12 CVmax2 അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ XC കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ Vmax XC Imax എന്നായിരിക്കും അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ 12 C Vmax2 ആണ് കപ്പാസിറ്ററിൽ ശേഖരിച്ചിട്ടുള്ള എനർജി ഈ ഒരു ബന്ധം ഇതിൽ ഉപയോഗിച്ചാൽ നമുക്ക് 12 Imax 2 ω2 C എന്ന് ലഭിക്കും അപ്പോൾ എന്താണ് ചെയ്തെതെന്നാൽ ഇതിലേക്ക് പകരം ചേർക്കുകയും XC 1ω C എന്ന് ചേർക്കുകയും അതിനെ ലഘൂകരിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഞാൻ ഇത് ചെയ്യുന്നില്ല അപ്പോൾ കപ്പാസിറ്ററിന്റെ കേസിൽQ 2 𝜋 12 Imax2ω2 C Imax2 2×R×1f അപ്പോൾ Q 1ω C R എന്നാവും ഇത് ക്വാളിറ്റി ഫാക്റ്ററിനാണ് ഇൻഡക്ടീവ് സർക്യൂട്ടിന് Q L ω R എന്നും കപ്പാസിറ്റിവ് സർക്യൂട്ടിന് Q 1ω C R എന്നുമാണ് അതിനാൽ റെസൊണൻസിലുള്ള ഒരു സീരീസ് RLC സർക്യൂട്ട് ഒരു സ്ഥിരമായ തോതിലുള്ള എനർജി സംഭരിക്കുന്നു ഇനി ഇത് ഒരു സീരീസ് RLC സർക്യൂട്ട് ആണെന്ന് കരുതുക ഇതിൽ VR I R ആണ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ് ഇതാണ് ഇവിടെ L അതിനാൽ VL എന്നത് ഈ ഇൻഡികേറ്ററിലുള്ള വോൾട്ടേജാണ് ഈ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് VC ആണ് ഇനി VC V ആണെന്ന് കരുതുക I Im sin ωt എന്നത് ac അളവാണ് ഇനി കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് V VC 1C ∫ Im sin ω t dt എന്നതാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Im ω C cos ω t എന്നാവും ലഭിക്കുക ഈ cos ω t എന്നതിനെ sin 90° ω t എന്നാക്കാം പക്ഷെ 1 sin ഇവിടെയുണ്ട് അതിനർത്ഥം ഇത് Im ω C sin ω t 90° എന്നാവും അപ്പോൾ ഇവിടെ കറണ്ട് I Im sin ω t എന്നും കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് ആയ V Im ω C sin ω t 90° എന്നുമാണ് ഇതിനർത്ഥം കറണ്ട് ഇത് ω t 0 ആയത് കാരണം യഥാർത്ഥത്തിൽ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് V VC യെക്കാൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ Im ω C sin ω t 90° ഇതൊരു sin ω t പ്ലോട്ട് ആയതിനാൽ ഈ കേസിൽ ഇത് 0 യിൽ നിന്ന് ആരംഭിക്കുന്നു ഇതാണ് I ഇവിടെ I ആണ് ആദ്യം ഉയർന്ന സ്ഥാനത്തെത്തുന്നത് മാത്രമല്ല ഇവിടെ ω t 0 ആവുമ്പോൾ I 0 ആയിരിക്കും അപ്പോൾ ഇത് 0 യിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇവിടെ ω t 0 ആവുമ്പോൾ V Im ω c sin 90° എന്നാവും sin 90° 1 ആണ് അപ്പോൾ V VC ആവും അതായത് കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് അപ്പോൾ ഇത് Im ω C എന്നായിരിക്കും അപ്പോൾ ഈ പോയിന്റ് Im ω C ആണ് അപ്പോൾ കറണ്ട് അതിന്റെ ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ഈ ആംഗിൾ 90°ആണ് അതിനാൽ ω t 90° ആവുമ്പോൾ I Im അപ്പോൾ ഇതാണ് ω t ഇനി ω t 90° ആവുമ്പോൾ V 0 കാരണം ഇതാണ് V യുടെ കർവ് അതിനാൽ കറണ്ട് അതിന്റെ വോൾട്ടേജിനെക്കാൾ വേഗത്തിൽ ഉയർന്ന സ്ഥാനത്തിൽ എത്തും അതിനാൽ ഈ കറണ്ട് വോൾട്ടേജിനെക്കാൾ 90° മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട് I എന്നത് VC യെ 90° കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇനി കപ്പാസിറ്റർ വോൾട്ടേജ് മാക്സിമം ആവുമ്പോൾ ഇൻഡക്റ്റർ കറണ്ട് പൂജ്യമായിരിക്കും അത് തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും അതായത് ഇവിടെ ഈ പോയിന്റായ കപ്പാസിറ്റർ വോൾട്ടേജ് പൂജ്യം ആകുമ്പോൾ ഇൻഡക്റ്റർ കറണ്ട് മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ ഈ പോയന്റായ ഇൻഡക്റ്റർ കറണ്ട് പൂജ്യം ആവുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് മാക്സിമം ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 12 CV max2 12 LImax 2 അതിൽ നിന്നും Q0 ω0L R 1 ω0 CR എന്ന് ലഭിക്കും അപ്പോൾ ഇതാണ് എന്റെ സമവാക്യം നിങ്ങളിത് സ്വയം ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ഇതാണ് Q0 എന്ന് വെക്കുക ഇവ വേർ തിരിച്ച് എഴുതുക Q0 ω0 L Rഎന്നും വീണ്ടും Q0 1ω0 CR അതിനാൽ Q0 × Q0 ω0 L R × 1ω0 CR പോൽ ω0 യും ω0 യും ഇല്ലാതെയായി പോകും അവസാനം ഇത് Q02 LR 2 C എന്നാവും അപ്പോൾ ഇതാണ് നിങ്ങളുടെ Q0 ഇനി ചോദ്യമെന്തെന്നാൽ ഈ ഫിഗറിലേക്ക് വരുന്നതിന് മുമ്പ് ω0 യിൽ കറണ്ട് മാക്സിമം ആണെന്ന് കരുതുക കാരണം റെസൊണൻസ് സർക്യൂട്ടിൽ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി സീരീസ് XL XC ആണെന്ന് കണ്ടു അപ്പോൾ ആ സാഹചര്യത്തിൽ കറണ്ട് മാക്സിമം ആണ് ആ കറണ്ട് I0 ആണെന്ന് വെക്കുക അപ്പോൾ I0 റെസൊണൻസ് ഫ്രീക്വൻസി ω ω0 അല്ലെങ്കിൽ f f0 ആവുമ്പോളുള്ള മാക്സിമം കറണ്ട് അതിനാൽ സർക്യൂട്ടിലേക്ക് വിതരണം ചെയ്യുന്ന പവർ I2 R ആയതിനാൽ I I0 √ 2 എന്നതിൽ പവർ എന്നത് ω0 യിൽ ഉണ്ടാകുന്ന പരമാവധി മൂല്യത്തിന്റെ ഒരു പകുതിയായിരിക്കും ഇത് I2 R ആണെന്നിരിക്കട്ടെ ഇനി I I0 √ 2 ആകുമ്പോൾ ഇതാണ് പവർ ലോസ് P എങ്കിൽ P I I 0 √ 2 അപ്പോൾ ഇത് I0 2 R 2 അതായത് ഇത് 12 P 2 എന്നായിരിക്കും അപ്പോൾ ഇത് I0 ആണ് ഇത് I0 √ 2 ആണ് ഇതിലേക്ക് ഞാൻ വരാം അതിനാൽ സർക്യൂട്ടിലേക്ക് വിതരണം ചെയ്ത പവർ ω0 യിൽ ഉണ്ടാകുന്ന പരമാവധി മൂല്യത്തിന്റെ ഒരു പകുതിയായിരിക്കും എന്നതിനാൽ റെസൊണൻസ് പവർ I 2 R ആണ് ഇനി I I0 ആകുമ്പോൾ ഇത് I0 2 R ആവും പക്ഷെ I I0 √ 2 ആവുമ്പോൾ ഇത് 12 ആയിരിക്കും ω1 നും ω2 നും അനുസൃതമായ പോയന്റുകൾ ഹാഫ് പവർ പോയിന്റ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതാണ് I0 √ 2 ഇതിനെയാണ് ഹാഫ് പവർ പോയിന്റ് എന്ന് വിളിക്കുന്നത് കാരണം പവർ ലോസ് I02 R ആണ് പക്ഷെ അത് I0 √ 2 ആകുമ്പോൾ ഇത് I0 2 R 2 എന്നാകും അപ്പോൾ ഇതിനെയാണ് ഹാഫ് പവർ പോയിന്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് ω ω1 ആവുമ്പോൾ ഇത് ഈ കർവിന്റെ രണ്ട് പോയന്റുകളെ ഛേദിക്കുന്നുണ്ട് മാത്രമല്ല ഇതിനെയാണ് f1 f0 f2 എന്നും അല്ലെങ്കിൽ ω1 ω0 ω2 എന്നും വിളിക്കുന്നത് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ള ഈ വീതിയെ നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് BW ω2 ω1 അല്ലെങ്കിൽ ഇനിയത് റേഡിയൻ പെർ സെക്കൻഡിലോ അല്ലെങ്കിൽ ഹെർട്സിലോ ആണെങ്കിൽ ഇത് f2 f1 എന്നാവും ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസി ഇതിനെ യഥാർത്ഥത്തിൽ ബാൻഡ്വിഡ്ത്ത് ടൈം എന്നും വിളിക്കുന്നു ഇനി ഈ ω ω1 എന്നതിനർത്ഥം നമ്മൾ സീരീസ് RLC സർക്യൂട്ടിന് കണ്ടത് പോലെ XC XL എന്നായിരിക്കും അപ്പോൾ ഈ രണ്ട് പോയന്റുകളെയാണ് ഹാഫ് പവർ പോയിന്റ് എന്ന് വിളിക്കുന്നത് അത്പോലെ ഈ ദൂരത്തെ നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്നും വിളിക്കുന്നു ഇനി ഇത് ω റേഡിയൻ പെർ സെക്കന്ഡിലാണെങ്കിൽ ഇത് ഫ്രീക്വൻസി ആണെങ്കിൽ ഇത് ഹെർട്സിലായിരിക്കും അതിനാൽ ഹാഫ് പവർ ഫ്രീക്വൻസിയിൽ നെറ്റ് റിയാക്റ്റൻസ് റെസിസ്റ്റൻസിന് തുല്യമായിരിക്കും ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു സീരീസ് RLC സർക്യൂട്ടിന് Z R j ആണെന്ന് കരുതുക ഇതിൽ രണ്ട് കാര്യങ്ങൾ നടക്കാം XL XC R ആണെങ്കിൽ കാരണം ഹാഫ് പവർ ഫ്രീക്വൻസിയിൽ √2 വരണം അല്ലെങ്കിൽ XC XL R എന്ന ഈ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ പൊതുവായി നമ്മൾ ഒന്നാമത്തെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ XL XC R അപ്പോൾ ആത്യന്തികമായി മോഡ് XL മോഡ് XC R ആയിരിക്കും അതിനാൽ ഒന്നാമത്തെ സാഹചര്യത്തിൽ Z R jR ആണെങ്കിൽ അതിനർത്ഥം ഇത് √ 2 R ആംഗിൾ 45° ആയിരിക്കും അത് പോലെ Z R jR ആണെങ്കിൽ ഇത് √ 2 R ആംഗിൾ 45° ആയിരിക്കും കാരണം |XL XC| R ആണ് അപ്പോൾ ഇതൊരു സാഹചര്യമാണ് അതിനാൽ ഹാഫ് പവർ ഫ്രീക്വൻസിയിൽ നെറ്റ് റിയാക്റ്റൻസ് റെസിസ്റ്റൻസിന് തുല്യമായിരിക്കും അപ്പോൾ അതിനർത്ഥം ഉയർന്ന Q ഉള്ള ഒരു സർക്യൂട്ടിന് Q യുടെ കുറഞ്ഞ മൂല്യമുള്ള ഒന്നിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂർത്തതായ കറണ്ട് പ്രതികരണ കർവ് ഉണ്ടാകും അപ്പോൾ ഇവിടെ പല അഡ്മിറ്റൻസ് vs ആംഗിൾ ഗ്രാഫുകൾ ഉണ്ടാകും അതിൽ നിന്ന് നമുക്ക് ഇത് എളുപ്പത്തിൽ ന്യായീകരിക്കാനാകും അത് പോലെ ഇത് |XL XC| R ആവുമ്പോൾ ω1 ൽ അതായത് കർവിന്റെ ഇടത് വശത്ത് കാണുന്നത് പോലെ XC XL ആയിരിക്കും അതിനാൽ ω1 ൽ XC XL R എന്നാണ് സമാനമായി ω2 ൽ XC XL അല്ലെങ്കിൽ XL XC ആയിരിക്കും അതിനാൽ ഈ കേസിൽ XL XC RC എന്നാവും ഇത് സമവാക്യം ഉം ഇത് സമവാക്യം ഉം ആണ് ഞാനിത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ലക്ച്ചർ കാണുമ്പോൾ ആദ്യം നിങ്ങൾ ഡയഗ്രമുകൾ വരച്ചതിന് ശേഷം വീഡിയോ കാണുക എങ്കിൽ പിന്നെ നോട്ട്സ് തയ്യാറാക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഇമ്പിടൻസ് നോക്കുകയാണെങ്കിൽ അതിലൊന്ന് ω1 ൽ Z1 R j R jR എന്നായിരിക്കും അത് Z1 √ 2 R ആംഗിൾ 45° എന്നാവും കാരണം √ R 2 R 2 എന്നും ആംഗിൾ tan 1 എന്നതും ആയിരിക്കും കാരണം അത് tan 1 R R എന്നതാവും അതിനാൽ ഇത് 45° ആയിരിക്കും ഇതേ പോലെ ω2 ൽ Z2 √ 2 R ആംഗിൾ 45° ആയിരിക്കും അതിനാൽ ω1 ൽ I1 V ആംഗിൾ 0° ഇതാണ് വോൾട്ടേജ് റഫറൻസ് ഇമ്പിടൻസ് √ 2 R ആംഗിൾ 45° എന്നാവും ഇത് V√ 2 R ആംഗിൾ 45° എന്നാവും സമാനമായി ω2 ൽ I2 V√ 2 R ആംഗിൾ 45° ഇവിടെ V R I0 ആയതിനാൽ റെസൊണൻസ് XL XC 0 ആവുമ്പോൾ കറണ്ട് മാക്സിമം ആയിരിക്കും അപ്പോൾ Z എന്നത് R ആയിരിക്കും അപ്പോൾ I0 ആണ് മാക്സിമം കറണ്ട് അതിനാൽ റെസൊണൻസ് VR ൽ റെസൊണൻസിലുള്ള കറണ്ട് ω0 ലുള്ള ഫ്രീക്വൻസി ആയിരിക്കും അതിനാൽ നമുക്ക് I1 1√ 2 എന്നതുണ്ട് അതായത് ഇവിടെ ഈ പദം നോക്കുകയാണെങ്കിൽ ഇത് I0 √ 2 ആംഗിൾ 45° എന്നാവും അത് 0 707 I0 ആംഗിൾ 45° എന്നതാണ് അതിനാൽ I1 0 707 I0 ആംഗിൾ 45° സമാനമായി I2 0 707 I0 ആംഗിൾ 45° എന്നുമാണ് പക്ഷെ ω ω1 ൽ XC XL R ആണ് അതിനാൽ ω ω1 എന്നാകുമ്പോൾ XL L ω1 എന്നും XC 1ω1 C എന്നുമായിരിക്കും ഇത് സമവാക്യം എന്ന് ചേർക്കാം അത് പോലെ ω ω2 ആകുമ്പോൾ XL L ω2 എന്നും XC 1ω2 C എന്നുമാകും ഇത് ω ω2 ആവുമ്പോളാണ് ഇത് സമവാക്യം ആണ് ഇത് യഥാർത്ഥത്തിൽ R ആണ് ഇനി എന്താണ് ചെയ്യുകയെന്നാൽ സമവാക്യം സമവാക്യം ൽ നിന്ന് കുറക്കണം അതായത് ഈ സമവാക്യം ഈ സമവാക്യത്തിൽ നിന്ന് കുറക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1ω1 1ω2 1C ω1 ω2 L 0 എന്നും അല്ലെങ്കിൽ ലളിതമായി നമുക്ക് 1ω1 ω2 LC 1ω02 എന്നും ലഭിക്കും റെസൊണൻസ് ഫ്രീക്വൻസി ω0 1√LC ആണ് ഇനി ഇതിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ LC 1ω02 എന്നാവും അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനാൽ ω0 √ ω1 ω2 ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് ω1 ഈ വശമാണ് ω2 ω1 എന്നതാണ് ബാൻഡ്വിഡ്ത്ത് ഇതേ പോലെ സമവാക്യം ഉം സമവാക്യം ഉം കൂട്ടുകയാണെങ്കിൽ അവ പരസ്പരം കൂട്ടുകയും അത് ലഘൂകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ω2 ω1 ω1 ω2 C ω2 ω1 L 2 R എന്ന് ലഭിക്കും ഇനി ω2 ω1 പൊതുവായിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക ω2 ω1 1 LC ω02 ω02 C ഇനി ഇവിടെ LC ω02 1 ആണ് കാരണം ω01√LC ആണ് അതിനാൽ ഇത് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ω02 1LC എന്നാവും ഇത് ക്രോസ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ω LC ω02 1 എന്ന് ലഭിക്കും അപ്പോൾ ഈ പദത്തിൽ 1 എന്ന് ചേർത്താൽ 1 1 2 എന്ന് ലഭിക്കും അതിനാൽ ω2 ω1 ω0 2 CR ആവും കാരണം ഈ രണ്ട് വശത്തു നിന്നും 2 വെട്ടിപോവും ഇനി ഇതിനെ ω0 കൊണ്ട് ഹരിച്ചാൽ ω2 ω1 ω0 ω0 CR എന്ന് ലഭിക്കും ഇത് 1Q0 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗത്തിൽ Q0 W0 W2 W1 അപ്പോൾ ഇത് അടിസ്ഥാനപരമായി W0 BW ബാൻഡ്വിഡ്ത്ത് ആണ് അപ്പോൾ ഇതാണ് സമവാക്യം അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളതാണ് കുറച്ച് ഗണിതപരമായ എക്സസൈസുകൾ ഉണ്ടെന്നേ ഒള്ളു നമുക്ക് ഇവിടെ കിട്ടിയത് Q0 ω0 BW എന്നതാണ് അല്ലെങ്കിൽ BW ω2 ω1 എന്നതാണ് നമുക്ക് വീണ്ടും കാണാം വളരെയധികം നന്ദി